ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണ സർക്യൂട്ട് എടുത്ത് അതിൽ y പാരാമീറ്ററുകൾ കണക്കാക്കും ഞാൻ ഈ സർക്യൂട്ട് എടുക്കട്ടെ ഇത് പോർട്ട് 1 ആണ് ഇത് പോർട്ട് 2 ആണ് വളരെ ലളിതമായ സർക്യൂട്ട് ആണ് ഇപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് 1 കിലോ Ω ആണെന്നും ഇത് 2 കിലോ Ω ആണെന്നും പറയാം നമ്മൾ y പാരാമീറ്ററുകൾ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നേരത്തെ വിവരിച്ച അൽഗോരിതം ഉപയോഗിച്ച് ഇത് ഒന്ന് ഒന്ന് ചെയ്യും അതിനാൽ y11 എന്നത് I1 V1 ആണ് V2 ഷോർട്ട് ചെയ്തിരിക്കുന്നു അതിനാൽ ഞാൻ രണ്ടാമത്തെ പോർട്ട് ഷോർട്ട് ചെയ്യുകയും ആദ്യത്തെ പോർട്ടിലേക്ക് വോൾട്ടേജ് V1 പ്രയോഗിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ V1 ഈ 1 കിലോ Ω ൽ പൂർണ്ണമായി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ് കാരണം 2 കിലോ Ω റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് 0 ആണ് അതിനാൽ ഈ കറന്റ് I1 ഇവിടെ മറ്റൊന്നുമല്ല V1 ഈ റസിസ്റ്റൻസ് 1 കിലോ Ω ആണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് I1 V1 ആയിരുന്നു ഇത് V1 1 കിലോ Ω V1 ആയി മാറുന്നു ഇത് 1 1 കിലോ Ω അല്ലെങ്കിൽ 1 മില്ലിസീമെൻസിന് തുല്യമാണ് അതിനാൽ അതാണ് y11 ഇപ്പോൾ y21 അളക്കൽ സജ്ജീകരണം ഇത് തന്നെയാണ് ഞാൻ ഇപ്പോഴും V2 0 സജ്ജീകരിച്ചിരിക്കുന്നു അതാണ് രണ്ടാമത്തെ പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നാൽ ഇത്തവണ ഞാൻ I1 ന് പകരം I2 അളക്കുന്നു അപ്പോൾ എനിക്ക് എന്ത് ലഭിക്കും I2 കൂടാതെ I2 ന്റെ ദിശയും മനസ്സിൽ വയ്ക്കുക I2 അങ്ങനെയാണ് അളക്കേണ്ടത് ഇപ്പോൾ വീണ്ടും ഈ V1 ഈ 1 കിലോ Ω യിൽ പൂർണ്ണമായി ഉൾപ്പെട്ടിരിക്കുന്നു കാരണം ഈ 2 കിലോ Ω റെസിസ്റ്ററിന് കുറുകെ ഷോർട്ട് ചെയ്തിരിക്കുന്നു 2 കിലോ Ω റെസിസ്റ്ററുകളിലൂടെ ഒരു കറന്റും ഒഴുകാൻ കഴിയില്ല അതിലെ വോൾട്ടേജ് 0 ആണ് അതിനാൽ നമുക്ക് ഒരു ഈ ദിശയിൽ ഇതുപോലെയുള്ള കറന്റ് അത് V11 കിലോ Ω ആണ് നിങ്ങൾ I2 നോക്കുകയാണെങ്കിൽ ഈ കറന്റ്ന് സമാനമാണ് എന്നാൽ ദിശ വിപരീതമായതിനാൽ I2 എന്നത് ലളിതമായി V1 1 കിലോ Ω ആണ് അതിനാൽ ഇതാണ് V1 1 കിലോ Ω V1 അത് നിങ്ങൾക്ക് നൽകുന്നു 1 മില്ലിസീമെൻസ് അതിനാൽ അതാണ് y21 ന്റെ മൂല്യം ഇപ്പോൾ നമുക്ക് മറ്റ് പാരാമീറ്ററുകൾ പരിഗണിക്കാം y12 എന്നത് I1 V2 ആണെന്ന് നമ്മൾക്കറിയാം V1 0 ആയി എനിക്ക് ഷോർട്ട് സർക്യൂട്ട് പോർട്ട് 1 വേണം അതിനാൽ ഞാൻ അത് ചെയ്യട്ടെ ഇത് 1 കിലോ Ω ആണ് അതായത് 1 കിലോ Ω ഇപ്പോൾ ഞാൻ ഷോർട്ട് സർക്യൂട്ട് പോർട്ട് 1 അല്ലെങ്കിൽ V1 0 സജ്ജീകരിച്ച് V2 പ്രയോഗിക്കുന്നു അതിനാൽ ഞാൻ V2 പ്രയോഗിച്ചാൽ ആദ്യം സംഭവിക്കുന്നത് ആ ദിശയിൽ V2 1 കിലോ Ω ആണ് ആ ദിശയിൽ V2 1 കിലോ Ω കറന്റ് ഉണ്ട് ഇവിടെ പോകുന്നത് 2 റെസിസ്റ്ററുകളിലെ കറന്റ്കളുടെ ആകെത്തുകയാണ് അതായത് V2 1 കിലോ Ω മടങ്ങ് 2 ആണ് അടിസ്ഥാനപരമായി ഇത് ആണ് ഇപ്പോൾ y12 ന് എനിക്ക് എന്താണ് വേണ്ടത് എനിക്ക് I1 വേണം ഇതാണ് ആ കറന്റ് V2 1 കിലോ Ω ആ വഴിക്ക് ഒഴുകുന്നുവെന്ന് ഞാൻ ഇതിനകം വിലയിരുത്തി അതിനാൽ I1 ആണ് ഇതിന്റെ നെഗറ്റീവ് അതിനാൽ I1 V2 1 കിലോ Ω ആണ് അത് നിങ്ങൾക്ക് V2 1 കിലോ Ω V2 നൽകുന്നു ഇത് 1 മില്ലിസീമെൻസ്ന് തുല്യമാണ് അവസാനമായി y22 എന്നത് I2 V2 ആണ് അത് V1 ന് തുല്യമാണ് അതായത് പോർട്ട് 1 ഷോർട്ട് സർക്യൂട്ട് y12 അളക്കുന്ന അതേ അവസ്ഥയാണ് അതിനാൽ I1 ഈ കറന്റ് ആണ് I1 എന്നത് 2 മടങ്ങ് V21 കിലോ Ω ആണ് അതിനാൽ y22 എന്നത് 2 V2 1 കിലോ Ω V2 ആണ് ഇത് 2 മില്ലിസീമെൻസിന് തുല്യമാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് സർക്യൂട്ട് 1 കിലോ Ω 1 കിലോ Ω 1 1 പ്രൈം 2 2 പ്രൈം ഉണ്ട് ഇതിന്റെ പ്രാതിനിധ്യം രണ്ട് പോർട്ട് നെറ്റ്വർക്കാണ് 1 1 പ്രൈം 2 2 പ്രൈം y പാരാമീറ്ററുകൾ അതായത് 1 മില്ലിസീമെൻസ് 1 മില്ലിസീമെൻസ് 1 മില്ലിസീമെൻസ് 2 മില്ലിസീമെൻസ് എന്നിങ്ങനെയാണ് അതിനാൽ ഈ സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിനുപകരം നിങ്ങൾക്ക് ഈ രണ്ട് പോർട്ടും അതിന് അനുയോജ്യമായ സമവാക്യവും എടുക്കാം അടിസ്ഥാനപരമായി I1 I2 എന്നത് y11 y12 y21 y22 തവണ V1 V2 അത് ഉപയോഗിക്കുക ഇപ്പോൾ ഈ സർക്യൂട്ട് വളരെ ലളിതമാണ് ഈ സർക്യൂട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തും വിശകലനം ചെയ്യാൻ കഴിയും എന്നാൽ നിങ്ങൾക്ക് ഇവിടെ 100 രജിസ്റ്ററുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ടെർമിനലുകളുടെ രണ്ട് ഘട്ടങ്ങൾ മാത്രമേ അറിയൂ അതായത് നാല് പാരാമീറ്ററുകൾ നാല് y പാരാമീറ്ററുകൾ മാത്രം പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ കണക്കുകൂട്ടലുകൾ വളരെ ലളിതമാകുന്നു അതിനാൽ ഇത് അതിന്റെ തുല്യമായ പ്രതിനിധാനമാണ് അവർ ചെയ്യുന്നത് അത്രമാത്രം ഒള്ളൂ കൂടാതെ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം ഇത്തവണ ഞാൻ ഒരു നിയന്ത്രണ സ്രോതസ്സ് ഉപയോഗിക്കും ഇത് Vx ആയി നിർവചിക്കാം ഇത് Vx ന്റെ 2 മില്ലിസീമെൻസ് മടങ്ങാണ് ഇതൊരു വോൾട്ടേജ് കൺട്രോൾ കറന്റ് സ്രോതസ്സാണ് ഇത് പോർട്ട് 1 ആണ് ഇത് പോർട്ട് 2 ആണ് അപ്പോൾ ഇതിന്റെ y പാരാമീറ്ററുകൾ എങ്ങനെ നിർണ്ണയിക്കും വീണ്ടും പഴയ അതേ അൽഗോരിതം നോക്കുക അതിനാൽ y11 നിങ്ങൾ പോർട്ട് 2 ഷോർട്ട് ചെയ്യുമ്പോൾ കിട്ടും അതായത് നിങ്ങൾ പോർട്ട് 2 0 ന് തുല്യമായി സജ്ജീകരിക്കുകയും I1V1 അനുപാതം കണ്ടെത്തുകയും ചെയ്യും y21 ന് നിങ്ങൾ പോർട്ട് 2 ഷോർട്ട് ചെയ്യുകയും I2 V1 അനുപാതം കണ്ടെത്തുകയും ചെയ്യുക മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക ഇവിടെ V1 പ്രയോഗിക്കുക ഈ രണ്ട് കറന്റ്കൾ കണ്ടെത്തേണ്ടതുണ്ട് ഈ കറന്റ് I1 ഉം ഈ കറന്റ് I2 ഉം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് കറന്റ് എവിടേക്കാണ് പോകുന്നതെന്ന് എപ്പോഴും ഓർക്കുക ഈ കറന്റ് 2 പോർട്ടിലേക്ക് പോകുന്നു അത് ഇവിടെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഉണ്ട് അത് I1 ഉം I2 ഉം ആണ് അതിനാൽ ദിശകൾ വളരെ പ്രധാനമാണ് ഇപ്പോൾ ഞാൻ ഈ 1 കിലോ Ω ന് കുറുകെ പോർട്ട് 2 ഷോർട്ട് ആക്കിയതിനാൽ 0 വോൾട്ട് ഉണ്ട് ഇതിലൂടെ കറന്റ് ഒഴുകുന്നില്ല ഈ V1 ഇവിടെ 1 കിലോ Ω റെസിസ്റ്ററിലുടനീളം ഉൾപ്പെടുന്നു അതിനാൽ ഈ 1 കിലോ Ω റെസിസ്റ്ററിലൂടെയുള്ള കറന്റ് V1 1 കിലോ Ω ആണ് ഈ കൺട്രോൾ സോഴ്സിലെ കറന്റ് മറ്റൊന്നുമല്ല 2 മില്ലിസീമെൻസ് തവണ Vx ഉം ആണ് Vx ഈ കേസിൽ V1 ന് തുല്യമാണ് അതിനാൽ ഇത് 2 മില്ലിസീമെൻസ് തവണ V1 ആണ് അതിനാൽ അത് ആ ദിശയിലേക്ക് പോകുന്നു അതിനാൽ ഒന്നാമതായി ഈ I1 ഈ V1 1 കിലോ Ω അല്ലെങ്കിൽ V1 തവണ 1 മില്ലിസീമെൻസിന് തുല്യമാണ് കാരണം 1 1 കിലോ Ω 1 മില്ലിസീമെൻസ് ആണ് ഈ I2 മറ്റൊന്നുമല്ല കൺട്രോൾ സ്രോതസ്സിലൂടെയുള്ള കറന്റ് ഈ റെസിസ്റ്ററുകളിൽ നിന്ന് വരുന്ന കറന്റ് അത് 2 മില്ലിസീമെൻസ് മടങ്ങ് V1 ആണ് അതായത് ഇതിലേക്ക് എന്താണ് പോകുന്നത് ഇവിടെ പോകേണ്ടതില്ല നിലവിലെ V1 1 കിലോ Ω അതായത് 1 മില്ലിസീമെൻസ് തവണ V1 അതിനാൽ ഈ മൂല്യത്തിന് പകരമായി നമുക്ക് I1 എന്നത് 1 മില്ലിസീമെൻസ് x V1 V1 ആണ് അത് 1 മില്ലിസീമെൻസ് ആണ് ഇതാണ് ഈ വ്യത്യാസം ഇത് 1 മില്ലിസീമെൻസ് തവണ V1 V1 ആണ് അതായത് 1 മില്ലിസീമെൻസ് തുടർന്ന് നമുക്ക് മറ്റ് 2 പാരാമീറ്ററുകൾ കണക്കാക്കേണ്ടതുണ്ട് നമുക്ക് y12 കണക്കാക്കണം അതായത് പോർട്ട് 1 ഷോർട്ട് ചെയ്ത I1 V2 പോർട്ട് 1 ഷോർട്ട് ചെയ്ത I2 V2 എന്നിവ അതിനാൽ ഈ 2 അളവുകൾക്കായി ഞാൻ ഷോർട്ട് പോർട്ട് 1 പ്രയോഗിക്കണം V2 ഞാൻ 2 വഴിയും 1 വഴിയും ഒഴുകുന്ന കറന്റ്കൾ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ ഇത് ഇവിടെ ഷോർട്ട് ചെയ്തു കാരണം ഇത് ഷോർട്ട് ചെയ്തതാണ് ഈ നിയന്ത്രണ സ്രോതസ്സ് 2 മില്ലിസീമെൻസ് തവണ Vx ആണ് ഇവിടെ ഇത് Vx ആണ് പോർട്ട് 1 ഷോർട്ട് ഉപയോഗിച്ച് Vx 0 ആണ് അതിനാൽ ഇവിടെ ഈ കറണ്ട് സ്രോതസ്സ് 0 ആയിരിക്കും ഇപ്പോൾ ഈ V2 ഈ 1 കിലോ Ω യിലും ആ 1 കിലോ Ω യിലും ഉടനീളം ഉൾപ്പെടുന്നു എന്ന് വ്യക്തമാണ് അതിനാൽ നമ്മൾക്ക് അവിടെ കറന്റ് V2 1 കിലോ Ω ഉണ്ട് അതിനാൽ ഞാൻ I1 അളക്കുകയാണെങ്കിൽ അത് ഈ റെസിസ്റ്ററുകളിലെ കറന്റിന് തുല്യമാണ് അത് V2 1 കിലോ Ω ന് വിപരീത ദിശയിലാണ് അതിനാൽ നമുക്ക് V2 1 കിലോ Ω V2 അത് എനിക്ക് നൽകുന്നു 1 മില്ലിസിമെൻസ് I2 അത് ഈ 2 കറന്റ്കളിൽ ഒന്നാണ് വാസ്തവത്തിൽ ഈ പോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ പോർട്ടിൽ കാണുന്ന ചാലകത നോക്കിയാൽ നമുക്ക് 1 കിലോ Ω 1 കിലോ Ω സമാന്തരമായി കാണാം അതിനാൽ ഇവയിൽ V2 1 കിലോ Ω V2 1 കിലോ Ω ആയിരിക്കും അതിനാൽ അത് എനിക്ക് 2 തവണ V2 1 കിലോ Ω V2 നൽകുന്നു അതായത് 2 മില്ലിസിമെൻസ് അതിനാൽ ഈ നെറ്റ്വർക്കുകളുടെ y പാരാമീറ്ററുകൾ നോക്കുകയാണെങ്കിൽ y മാട്രിക്സ് 1 മില്ലിസീമെൻസ് 1 മില്ലിസീമെൻസ് 1 മില്ലിസീമെൻസ് 2 മില്ലിസീമെൻസ് എന്നിവയാണ് അതിനാൽ സർക്യൂട്ടിനുള്ളിലെ എല്ലാ വിശദാംശങ്ങളും നോക്കുന്നതിനുപകരം നിങ്ങൾക്ക് ഈ സമവാക്യം 4 പാരാമീറ്ററുകൾ ഉപയോഗിച്ച് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം